നമസ്തേ നമ്മുടെ കഴിഞ്ഞ സെഷനിൽ സാമ്പത്തിക പ്രസ്താവനയുടെ വിശകലനത്തെക്കുറിച്ചും അതിന്റെ വ്യാഖ്യാനത്തെക്കുറിച്ചും ചർച്ച ആരംഭിച്ചു അതിനാൽ ധനകാര്യ പ്രസ്താവനകൾ ധാരാളം ഡാറ്റ നൽകുന്നു വ്യത്യസ്ത ഉപയോക്താക്കൾക്ക് പ്രസക്തമായ വിവരങ്ങൾ എക്സ്ട്രാക്റ്റുചെയ്യാനാകും അതിനാൽ അവ ഹൊറിസോണ്ടൽ സ്റ്റേയ്റ്റ്മെന്റ് വെർട്ടിക്കൽ സ്റ്റേയ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ബെഞ്ച്മാർക്കിംഗിനായി പോകാം വിശകലനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതികത റേഷ്യോ അനാലിസിസ് ആണ് അവിടെ വിവിധ അനുപാതങ്ങൾ കണക്കാക്കുന്നു അതിനാൽ കഴിഞ്ഞ തവണ നമ്മൾ കണ്ട ഉദാഹരണങ്ങൾ ആണ് ഇത് നിങ്ങൾക്ക് ലാഭത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ലാഭത്തെ താരതമ്യം ചെയ്യുന്നത് ന്യായമായ ഒരു ചിത്രം നൽകില്ല വിൽപ്പനയുടെ ശതമാനമായി ലാഭം അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു തുടർന്ന് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്നറിയപ്പെടുന്ന അനുപാതം കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ വിൽപ്പനയുടെ ശതമാനമെന്ന നിലയിൽ ബി കമ്പനിയ്ക്ക് എയേക്കാൾ കൂടുതൽ ലാഭമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കും വ്യത്യസ്ത അനുപാതങ്ങൾ കണക്കാക്കുന്നതിനാൽ വ്യത്യസ്ത അനുപാതങ്ങളുണ്ട് ഇപ്പോൾ കമ്പനിയുടെ കരുത്തും ബലഹീനതയും അറിയാൻ അനുപാതങ്ങൾ ഉപയോഗപ്രദമാണ് അവ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉപയോഗപ്രദമാണ് പ്രകടനം അറിയുന്നതിനും അവ ഉപയോഗപ്രദമാണ് ഇപ്പോൾ അനുപാതങ്ങളുടെ പ്രാധാന്യം ധനകാര്യ പ്രസ്താവനകൾ വർത്തമാനത്തെയും ഭൂതകാലത്തെയും കുറിച്ച് നിങ്ങളോട് പറയുന്നു എന്നതാണ് പക്ഷേ അനുപാതങ്ങൾ ഭാവി പ്രോജക്റ്റ് ചെയ്യുന്നതിന് പോലും ഉപയോഗിക്കാം അതിനാൽ നമുക്ക് ചില അനുമാനങ്ങൾ നടത്താനും മുൻകാല ട്രെൻഡുകൾ നോക്കാനും അനുപാതങ്ങളുടെ നേട്ടമായ ഭാവിയിലേക്കുള്ള പ്രവചനങ്ങൾ നടത്താനും കഴിയും ഇപ്പോൾ നമ്മുടെ അവസാന സെഷനിൽ ലിക്വിഡിറ്റിയും ക്യാപിറ്റൽ സ്റ്റ്ക്ച്ചറും ആയ ആദ്യത്തെ രണ്ട് തരം അനുപാതങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ആരംഭിച്ചു വ്യാപകമായി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുപാതമാണ് ലിക്വിഡിറ്റി കറന്റ് റേഷ്യോ കമ്പനിയുടെ കറന്റ് ലയബിലിറ്റി നിറവേറ്റാൻ ആവശ്യമായ കറന്റ് അസ്സെറ്റ്സ് ഉണ്ടോ എന്ന് അറിയാൻ ഇത്ഉപയോഗിക്കുന്ന്നു കറന്റ് റേഷ്യോ കറന്റ് അസ്സെറ്റ്സ് കറന്റ് ലയബിലിറ്റീസ് ഇവിടെ കറന്റ്റ് അസറ്റ് ഇൻവെൻററികൾ സൺഡ്രി ഡെറ്റോർസ് ക്യാഷ് ബാങ്ക് ബാലൻസുകൾ റീസിവബിൾസ് ആക്യുവലുകൾ വായ്പകളും അഡ്വാൻസുകളും ഡിസ്പോസിബിൾ ഇൻവെസ്റ്റ്മെന്റ് കറന്റ്റ് ലയബിലിറ്റീസ് ക്രെഡിറ്റർസ് ഷോർട്ടെം ലോൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്യാഷ് ക്രെഡിറ്റ് ഔട്സ്റ്റാന്ഡിങ് എക്സപെൻസീസ് പ്രൊവിഷൻ ഫോർ ടാക്സേഷന് പ്രോപോസ്ഡ് ഡിവിഡന്റ് അൺക്ലെയിംഡ് ഡിവിഡന്റ് അതിനാൽ അനുപാതം സാധാരണയായി 2 1 സ്വീകാര്യമാണ് പക്ഷേ ഇത് വ്യവസായത്തിൽ നിന്ന് വ്യവസായത്തിലേക്ക് ഗണ്യമായി മാറാം കറന്റ് ലയബിലിറ്റി നിറവേറ്റുന്നതിനും പാപ്പരത്തം ഒഴിവാക്കുന്നതിനാവശ്യമായ നിലവിലെ ആസ്തികൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് പൊതുവായ ആശയം ഇപ്പോൾ ഈ അനുപാതത്തിന്റെ കൂടുതൽ യാഥാസ്ഥിതിക അളവ് ക്വിക്ക് റേഷ്യോ ആണ് ഇവിടെ ക്വിക്ക് അസ്സെറ്റ്സ് ക്വിക്ക് ലയബിലിറ്റി അനുപാതം കണക്കാക്കുന്നു കമ്പനിയുടെ ദീർഘകാല പണലഭ്യത കണക്കു കൂട്ടാൻ ക്യാപിറ്റൽ സ്റ്റ്ക്ച്ചർ റേഷ്യോ നമ്മൾ കണ്ടുതുടങ്ങി അതിനാൽ രണ്ട് പ്രധാന ഫണ്ടിംഗ് സ്രോതസ്സുകളുണ്ടെന്ന് നമുക്കറിയാം ഒന്ന് ഇക്വിറ്റി മറ്റൊന്ന് കടമാണ് അതിനാൽ ഇക്വിറ്റി റേഷ്യോ മൂലധനത്തിന്റെ ഒരു ശതമാനമായി ഇക്വിറ്റി കണക്കാക്കാൻ ഉപയോഗിക്കുന്നു ഇക്വിറ്റി റേഷ്യോ ഷെയർഹോൾഡേഴ്സ് ഇക്വിറ്റിടോട്ടൽക്യാപിറ്റൽഎംപ്ലോയ്ഡ് ഡെറ്റ് റേഷ്യോയിൽ മൂലധനത്തിന്റെ ശതമാനമായി കടം ഡെറ്റ് റേഷ്യോടോട്ടൽഡെറ്റ് ക്യാപിറ്റൽഎംപ്ലോയ്ഡ് ഇവിടെ ടോട്ടൽ ഡെറ്റ് എന്നാൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള ഹ്രസ്വ ദീർഘകാല വായ്പ ഡിബഞ്ചറുകൾ ബോണ്ടുകൾ ഡിഫേർഡ് പയ്മെന്റ്റ് എന്നിവ ഉൾപ്പെടുന്നു ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഏറ്റവും സാധാരണവും വ്യാപകവുമായി ഉപയോഗിക്കുന്നതാണ് കടം ഇക്വിറ്റിയുടെ ശതമാനമായി കണക്കാക്കുന്നു എന്നാൽ ന്യൂമറേറ്ററിലെ അനുപാതം കണക്കാക്കുമ്പോൾ നമ്മൾ കടവും പ്രീഫെറെൻസ് ഷെയർ ക്യാപിറ്റലും എടുക്കുന്നു യഥാർത്ഥത്തിൽ ഓഹരി ഉടമകളുടെ ഇക്വിറ്റിയിൽ പ്രീഫെറെൻസ് ക്യാപിറ്റൽ ഉൾപ്പെടുന്നുവെന്നത് ഓർമ്മിക്കുക എന്നാൽ ഈ അനുപാതത്തിന്റെ ഉദ്ദേശ്യത്തിനായി നമ്മൾ അത് ഡിനോമിനേറ്ററിൽ നിന്ന് കുറയ്ക്കുകയും അതിനെ ന്യൂമറേറ്ററിൽ ചേർക്കുകയും ചെയ്യുന്നു കാരണം ഇത് ഷെയർഹോൾഡർമാരുടെ ഫണ്ടാണെങ്കിലും 5 മുതൽ 10 വർഷത്തിനുള്ളിൽ അത് തിരിച്ചടയ്ക്കാനാകും അതിനാൽ അത് കടം പോലുള്ള ഒരു സ്വഭാവം നേടി അതിനാൽ നമ്മൾ ഡെറ്റ് പ്ലസ് പ്രിഫറൻസ് ക്യാപിറ്റൽ ചേർത്ത് ഷെയർഹോൾഡർമാർ ഇക്വിറ്റി മൈനസ് പ്രിഫറൻസ് ക്യാപിറ്റൽ വച്ച് ഹരിച്ചു അതിനാൽ ഡെറ്റ് ഇക്വിറ്റി അനുപാതം വളരെ പ്രധാനപ്പെട്ട അനുപാതമാണ് അവിടെ ബാങ്കർമാർക്ക് വളരെയധികം താൽപ്പര്യമുണ്ട് വാസ്തവത്തിൽ ഡെറ്റ് ഇക്വിറ്റി അനുപാതം കണക്കാക്കുന്നില്ലെങ്കിൽ ഒരു ബാങ്കും വായ്പ നൽകില്ല എത്ര ഡെറ്റ് ഇക്വിറ്റി അനുപാതം ആണ് സ്വീകാര്യ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വില വരുന്ന വാഹനം വാങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് കരുതുക സാധാരണഗതിയിൽ ബാങ്ക് എത്ര വായ്പ തരും ബാങ്കുകൾ സാധരണ ആയി 75 ശതമാനം വായ്പ നൽകുന്നു അപ്പോൾ എത്ര ടെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് അത് 10 ലക്ഷത്തിൽ നിന്ന് അവർ 7 5 ലക്ഷവും ഉടമ 2 5 ലക്ഷവും നൽകണം അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി അനുപാതം എന്താണ് 5 ബൈ 2 5 അതായത് സ്വീകാര്യമായ ഡെറ്റ് ഇക്വിറ്റി അനുപാതം 3 അതുപോലെ റിസർവ് ബാങ്കും മറ്റു റെഗുലേറ്റർമാരും ബാങ്കുകൾക്കു നല്കാൻകഴിയുന്ന പരമാവധി ഡെറ്റ് ഇക്വിറ്റി അനുപാതം നിർണയിക്കും വ്യക്തിഗത ബാങ്കുകളും ഈ കാര്യത്തിൽ നേരത്തെ തീരുമാനം എടുക്കും എന്നിരുന്നാലും കേസ് അടിസ്ഥാനത്തിൽ അല്പം മാറ്റം കൊണ്ടുവരും സാധാരണ അവർ അത് താഴേക്ക് കൊണ്ടുവരും കടം വാങ്ങുന്നയാൾ സാമ്പത്തികമായി ശക്തനല്ലെന്ന് കരുതുക അത് കൊണ്ട് അവർക്ക് 10 ലക്ഷത്തിൽ 6 ലക്ഷം മാത്രമേ ധനസഹായം നൽകൂ എന്നും അവർക്ക് പറയാൻ കഴിയും അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി എന്തായിരിക്കും 6 ബൈ 4 അതായത് ഇത് 1 5 ആയി മാറുന്നു അതിനാൽ മാനദണ്ഡം 3 ആണ് പക്ഷേ ആവശ്യാനുസരണം അവർക്ക് പരമാവധി ധനസഹായം കുറയ്ക്കാൻ കഴിയും അതിനാൽ ഡെറ്റ് ഇക്വിറ്റി അനുപാതം വളരെ പ്രധാനപ്പെട്ട ഒരു അനുപാതമാണ് ഇത് ഏതെങ്കിലും വായ്പാ നിർദ്ദേശം അനുവദിക്കുമ്പോൾ ബാങ്കർ നോക്കുന്നു മറ്റ് വായ്പക്കാർ ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങളെപ്പോലെയോ പാട്ടത്തിനെടുക്കുന്ന കമ്പനികളെപ്പോലെയോ ഒരു കമ്പനി ക്രെഡിറ്റ് വിൽപ്പന നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഉപഭോക്താക്കളുടെ ഡെറ്റ് ഇക്വിറ്റി അനുപാതം പരിശോധിക്കുന്നു കാരണം കറന്റ് റേഷ്യോയും ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയും കടം തിരിച്ചടയ്ക്കാൻ ഉപഭോക്താവിന് കഴിയുമോ എന്ന് കണ്ടെത്താൻ പ്രധാനമാണ് ഒരു ഹ്രസ്വകാല ഇടപാടിൽ കറന്റ് റേഷ്യോക് കൂടുതൽ പ്രാധന്യം നൽകുന്നു ഒരു ദീർഘകാല ഇടപാടിൽ ഡെറ്റ് ഇക്വിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഈ ഡെറ്റ് ഇക്വിറ്റി അനുപാതം പ്രോജക്റ്റിന്റെ സ്വഭാവത്തിന് അനുസരിച് അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അസ്സെറ്റിനു അനുസരിച്ചു മാറാം ഉദാഹരണത്തിന് ഒരു വാഹനത്തിനായി ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സാധാരണയായി ബാങ്ക് 75 ശതമാനം വായ്പ നൽകുന്നു അതിനാൽ ഡെറ്റ് ഇക്വിറ്റി അനുപാതം എത്രയാണ് 75 ബൈ 25 എന്നതിനർത്ഥം 3 നു 1 എന്നാൽ നിങ്ങൾ ഒരു കോടി രൂപയ്ക്ക് ഒരു വീട് വാങ്ങുകയാണെന്നു കരുതുക ബാങ്ക് എത്ര വായ്പ തരും സാധാരണഗതിയിൽ ബാങ്കർമാർ 80 ശതമാനം വീടിന് ധനസഹായം നൽകുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ എന്നാൽ അവർ 80 ശതമാനം ധനസഹായം നൽകുന്നുവെങ്കിൽ അതായത് 80 ലക്ഷം ബാങ്കുകൾ വായ്പയെടുക്കുന്നയാൾ 20 ലക്ഷം അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി അനുപാതം എന്താണ് 80 ബൈ 20 എന്നാൽ ഇത് 4 നു 1 പലതവണ ബാങ്കർമാർ 85 ശതമാനം പോലും ധനസഹായം നൽകുന്നു അതായത് 85 മുതൽ 15 വരെ അതിനാൽ ഇത് ഏകദേശം 5 5 അല്ലെങ്കിൽ 6 എന്ന അനുപാതമാണ് അതിനാൽ വാഹനത്തെക്കാൾ വീട് കൂടുതൽ സുരക്ഷിതമാണെന്ന് കണക്കാക്കപ്പെടുന്നു അതിനാൽ ഉയർന്ന ഡെറ്റ് ഇക്വിറ്റി അനുപാതത്തിലേക്ക് പോകാൻ അവർ തയ്യാറാണ് നിങ്ങൾക് മനസിലാകുന്നുണ്ടോ റോഡ് നിർമ്മാണം അല്ലെങ്കിൽ റെയിൽവേ നിർമ്മാണം പോലുള്ള ചില അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ആരംഭിക്കുന്നുവെന്നു കരുതുക ഡെറ്റ് ഇക്വിറ്റി അനുപാതം കൂടുതലോ കുറവോ ആയിരിക്കുമോ അത്തരം ദീർഘകാല പ്രോജക്റ്റുകളുടെ ഡെറ്റ് ഇക്വിറ്റി അനുപാതം വളരെ കൂടുതലാണ് ഇത് ചിലപ്പോൾ റെയിൽവേയ്ക്കും 6 10 15 ആകാം കാരണം ഈ ആസ്തികളിൽ നിന്നുള്ള വരുമാനം ഒരു നീണ്ട കാലയളവിൽ വരാൻ പോകുന്നു ഇവ കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവുമായ ആസ്തികളാണ് ബാങ്കർമാർ കൂടുതൽ ഡെറ്റ് ഇക്വിറ്റി അനുപാതം നൽകുന്നു യുഎസിലെ സബ്പ്രൈം പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ 2008 ൽ സബ്പ്രൈം പ്രതിസന്ധി എന്നറിയപ്പെടുന്ന വളരെ വലിയ പ്രതിസന്ധിയുണ്ടായിരുന്നു സബ്പ്രൈം പ്രതിസന്ധിയിൽ ബാങ്കർമാർ സബ്പ്രൈം ആയ ആളുകൾക്കു വായ്പ നൽകി സബ്പ്രൈം എന്നാൽ നിലവാരം കുറഞ്ഞത് ബാങ്കുകൾ കൂടുതൽ കൂടുതൽ ഡെറ്റ് ഇക്വിറ്റി അനുപാതം നൽകി അത് നിഷ്ക്രിയ ആസ്തികളുടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു അത് സബ്പ്രൈം പ്രതിസന്ധി എന്നറിയപ്പെടുന്നു നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് ഗൂഗിളിൽ സബ്പ്രൈം പ്രതിസന്ധി ടൈപ്പുചെയ്യാം ധാരാളം ലേഖനങ്ങൾ വരും നിങ്ങൾക്ക് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യില്ല പക്ഷേ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഡെറ്റ് ഇക്വിറ്റി അനുപാതം വളരെ പ്രധാനമാണ് ഡെറ്റ് ഇക്വിറ്റി അനുപാതം ബാങ്ക് ലംഘിക്കുകയാണെങ്കിൽ ബാങ്ക് കൂടുതൽ ഡെറ്റ് ഇക്വിറ്റി അനുപാതം നൽകുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ബാങ്കിന് ഒരു പ്രശ്നം ആകുന്നു ഡെറ്റ് ഇക്വിറ്റി അനുപാതം ഉയർന്നതാണെങ്കിൽ അത് കമ്പനിക്കും പ്രശ്നമുണ്ടാക്കുന്നു കാരണം നമ്മൾ കൂടുതൽ കൂടുതൽ കടത്തിനായി പോകുമ്പോൾ കൂടുതൽ കൂടുതൽ റിസ്ക് എടുക്കുന്നു കൂടുതൽ ഭൂമിയും കെട്ടിടവും പോലുള്ള സ്ഥിരമായ ആസ്തികളുള്ള കമ്പനിക്ക് കൂടുതൽ ഡെറ്റ് ഇക്വിറ്റി അനുപാതമുണ്ടാകുന്നതിൽ തെറ്റില്ല എന്നാൽസേവനമേഖലയിലെ കമ്പനികൾ അല്ലെങ്കിൽ അത്പോലെയോ ആണെങ്കിൽ അവയ്ക്ക് കുറഞ്ഞ ഡെറ്റ് ഇക്വിറ്റി അനുപാതം ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് ഇൻഫോസിസ് പോലുള്ള പല ഐ ടി കമ്പനികളെയും 0 ഡെറ്റ് കമ്പനി എന്ന് വിളിക്കുന്നു അവർക്ക് കടമേ ഇല്ല പിന്നീട് ചില കേസുകൾ നമ്മൾ കാണും ഇപ്പോൾ അടുത്ത തരം അനുപാതങ്ങളെ കവറേജ് റേഷ്യോസ് എന്ന് വിളിക്കുന്നു നമ്മൾ ബാങ്കർമാരെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു പരമാവധി ഡെറ്റ് ഇക്വിറ്റി അനുപാതം തീരുമാനിക്കാൻ ബാങ്കർമാർ ആഗ്രഹിക്കുന്നു എന്നാൽ തിരിച്ചടയ്ക്കാൻ പോകുന്ന പലിശ കമ്പനിയുടെ ഇൻകം കൊണ്ടാണോ അതോ ഏർണിങ്സ് കൊണ്ടാണോ വീട്ടാൻ പോകുന്നത് എന്നും അവർ നോക്കുന്നു ഇപ്പോൾ ഫിക്സഡ് ക്ലെയിമുകൾ വായ്പയുടെ പലിശ അല്ലെങ്കിൽ പ്രീഫെറെൻസ് ഡിവിഡന്റ് അല്ലെങ്കിൽ തവണകളായി തിരിച്ചടവ് പോലെയാണ് അതിനാൽ പ്രധാനമായും ബാങ്കർമാർ പരിഗണിക്കുന്ന അനുപാതം ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ ആണ് ഡെറ്റ് സർവീസിനായി ലഭ്യമായ ഏർണിങ്സ് ആണ് ന്യുമറേറ്റർ അതിനെ ഇന്ട്രെസ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ് ആയി ഹരിക്കുന്നു സാധാരണയായി നെറ്റ് പ്രോഫിറ്റ് ലഭ്യമാണ് കൂടാതെ മൂല്യത്തകർച്ച പോലുള്ള ചില പണേതര ചെലവുകളും ചേർക്കുന്നു കൂടാതെ ആസ്തികൾ വിൽക്കുന്നതിലെ നഷ്ടത്തിനും കടങ്ങളുടെ പലിശയ്ക്കും ചില അഡ്ജസ്റ്മെന്റ്സ് നടത്തുകയും ചെയ്യുന്നു അതിനാൽ ലഭ്യമായ പണം ന്യുമറേറ്റർ ആയും ഗഡു പലിശ ഉൾപ്പെടെ ഒരു ഡിനോമിനേറ്ററായി സൂക്ഷിക്കുകയും വേണം ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ ഏർണിങ്സ് അവൈലബിൾഫോർ ടെറ്റ് സർവീസ്ഇന്ട്രെസ്റ് ഇൻസ്റ്റാൾമെൻറ്സ് ഇവിടെ ഏർണിങ്സ് ഫോർ ഡെറ്റ് സർവീസ് നെറ്റ് പ്രോഫിറ്റ് ഡിപ്രീസിയേഷൻ അമോർടൈസേഷൻ പോലുള്ള പണമല്ലാത്ത പ്രവർത്തന ചെലവുകൾ അതിനാൽ കൃത്യസമയത്ത് തിരിച്ചടവ് നടത്താൻ കമ്പനിക്ക് ശേഷിയുണ്ടോ എന്ന് അവരുടെ ഗഡു തിരിച്ചടയ്ക്കുന്നതിന് എത്ര തവണ വരുമാനം ലഭ്യമാണെന്ന് ഇവിടെയുള്ള ബാങ്കർമാർക്ക് അറിയാം അത് ഒരു ഡെറ്റ് സർവീസ് കവറേജ് അനുപാതമാണ് ഇതു പോലെ ഇന്ട്രെസ്റ് കവറേജ് റേഷ്യോയും കണക്കാക്കാം അതിനാൽ കമ്പനിക്ക് കുറഞ്ഞത് പലിശയെങ്കിലും തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്നത് അവിടെ ന്യൂമറേറ്റർ പലിശയ്ക്കും നികുതിയ്ക്കും മുമ്പുള്ള ലാഭമോ ലാഭമോ ആണ് ഇന്ട്രെസ്റ് കവറേജ് റേഷ്യോ ഇ ബി ഐ ടി ഇന്ട്രെസ്റ് ഇവിടെ EBIT പലിശയ്ക്കും നികുതിക്കും മുമ്പുള്ള വരുമാനം അതിനാൽ അനുപാതം കൂടുതലാണെങ്കിൽ അതായത് ടെറ്റ് സെർവിസും ഇന്ട്രെസ്റ് കവറേജും ഉയർന്ന അനുപാതം ആണെങ്കിൽ അതിനർത്ഥം പണം തിരിച്ചടയ്ക്കാതിരിക്കാനുള്ള സാധ്യത കുറവാണ് അതിനാൽ ബാങ്കർമാർ സാധാരണയായി ഏറ്റവും കുറഞ്ഞ ഡെറ്റ് കവറേജ് അനുപാതമെങ്കിലും നിർബന്ധിക്കുന്നു പ്രീഫെറെൻസ് ഡിവിഡന്റ് കവറേജ് റേഷ്യോ ഇ എ ടി പ്രീഫെറെൻസ് ഡിവിഡന്റ് ലയബിലിറ്റി ഇവിടെ EAT നികുതിക്കുശേഷമുള്ള വരുമാനം അതേ രീതിയിൽ തന്നെ പ്രീഫെറെൻസ് ഷെയർഹോൾഡർമാർക്ക് അവരുടെ ഡിവിഡന്റിനുള്ള കവറേജ് അറിയാൻ താൽപ്പര്യമുണ്ടാകും അതിനാണ് പ്രീഫെറെൻസ് ഡിവിഡന്റ് കവറേജ് അനുപാതം പലിശയും നികുതിയും അടച്ചതിനുശേഷം മാത്രമേ മുൻഗണന ലാഭവിഹിതം നൽകാൻ കഴിയൂ അതിനാൽ ഇപ്പോൾ നമ്മൾ EAT എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ PAT എന്നും വിളിക്കാം നികുതിയ്ക്ക് ശേഷം സമ്പാദിക്കൽ അല്ലെങ്കിൽ നികുതിയ്ക്കു ശേഷമുള്ള ലാഭം പ്രീഫെറെൻസ് ഡിവിഡന്റ് ലിവബിലിറ്റി കൊണ്ട് ഹരിക്കുമ്പോൾ പ്രീഫെറെൻസ് ഡിവിഡൻഡ് കോവേറേയ്ജ് റേഷ്യോ അതിനാൽ നികുതിയ്ക്കു ശേഷമുള്ള ലാഭം പര്യാപ്തമാണെങ്കിൽ കരാർ വ്യവസ്ഥകൾ അനുസരിച്ച് കമ്പനിക്ക് ലാഭവിഹിതം നൽകാൻ കഴിയും അതിനാൽ ഈ അനുപാതത്തിൽ കവറേജ് കാണപ്പെടുന്നു അടുത്തത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്നറിയപ്പെടുന്ന ഒരു പ്രധാന അനുപാതമാണ് ക്യാപിറ്റൽ ഗിയറിങ് റേഷ്യോ പ്രീഫെറെൻസ് ഷെയർ ക്യാപിറ്റൽ ഡിബെന്ച ർ ലോങ്ങ് ടെം ലോൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റിസേർവേസ് ആൻഡ് സർപ്ലസ് ലോസ്സ് ഇത് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്ത ഡെറ്റ് ഇക്വിറ്റി അനുപാതവുമായി വളരെ സാമ്യമുള്ളതാണ് അതിനാൽ ന്യൂമറേറ്ററിൽ നമ്മൾ പ്രീഫെറെൻസ് ക്യാപിറ്റലും ഡെട്ടും ഡിനോമിനേറ്ററിൽ ഉടമസ്ഥരുടെ ഫണ്ട് അതായത് ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസേര്വ്സ് മൈനസ് സാധ്യമായ നഷ്ടങ്ങൾ അതിനാൽ ഇവിടെയും അനുപാതം ഉയർന്നതാണെങ്കിൽ കമ്പനി കൂടുതൽ അപകടസാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇത് ഒരു പ്രത്യേക പ്രോജക്റ്റിനായി കണക്കാക്കാം അനുപാതം ഉയർന്നതാണെങ്കിൽ പദ്ധതി അപകടകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു വളരെ ഉയർന്ന അനുപാതം ഒഴിവാക്കേണ്ടതുണ്ട് ഇപ്പോൾ അടുത്ത തരം അനുപാതങ്ങളെ ആക്റ്റിവിറ്റി റേഷ്യോസ് എന്ന് വിളിക്കുന്നു അവയെ ചിലപ്പോൾ എഫിഷ്യൻസി അല്ലെങ്കിൽ പെർഫോമൻസ് അല്ലെങ്കിൽ ടേൺഓവർ റേഷ്യോസ് എന്നും വിളിക്കാറുണ്ട് കാരണം കമ്പനിക്ക് അവരുടെ ആസ്തികൾ എത്രത്തോളം മികച്ചതോ എത്രത്തോളം കാര്യക്ഷമമോ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഇവിടെ നമ്മൾ കണക്കാക്കുന്നു ഇപ്പോൾ ആസ്തികൾ പ്രധാനമായും വിൽപ്പന സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കുന്നു അതിനാൽ ഇതിനുള്ള സമഗ്ര അനുപാതം ക്യാപിറ്റൽ ടേൺഓവർ റേഷ്യോ ആണ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ സെയിൽസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇപ്പോൾ വിൽപ്പന സൃഷ്ടിക്കുന്നതിന് നമ്മൾ ബിസിനസ്സിൽ മൂലധനം ഉപയോഗിക്കുന്നു അതിനാൽ ഞങ്ങൾ ക്യാപിറ്റലിന്റെ മേൽ സെയിൽസ് കണക്കാക്കുന്നു കാര്യക്ഷമമായ ഒരു കമ്പനിക്ക് കുറഞ്ഞ ക്യാപിറ്റൽ ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ വിൽക്കാൻ കഴിയും അതിനാൽ ഉയർന്ന അനുപാതം അഭികാമ്യമാണ് ഉയർന്ന അനുപാതം എന്നതിനർത്ഥം അവർക്ക് കൂടുതൽ വിറ്റുവരവ് സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് മാത്രമല്ല അവരുടെ ലാഭവും ഉയർന്നതായിരിക്കും അതിനാൽ എല്ലാ ആസ്തികൾക്കും വേണ്ടി ഒരുമിച്ച് ഇത് ചെയ്യുന്നതിന് നമ്മൾ ക്യാപിറ്റൽ ടേൺഓവർ റേഷ്യോ കണക്കാക്കുന്നു ഫിക്സഡ് അസ്സെറ്റ് ടേൺഓവർ റേഷ്യോ ആണ് മറ്റ് ജനപ്രിയ അനുപാതം ഫിക്സഡ് അസ്സെറ്റ് ടേൺ ഓവർ റേഷ്യോ സെയിൽസ് ക്യാപിറ്റൽ അസ്സെറ്റ് ഇവിടെയും സെയിൽസ് തന്നെ ആണ് ന്യുമറേറ്റർ ഫിക്സഡ് അസ്സെറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അസ്സെറ്റ്സ് ആണ് ഡിനോമിനേറ്റർ അതിനാൽ കമ്പനി ഉപയോഗിക്കുന്ന ദീർഘകാല ആസ്തികൾ എന്തൊക്കെയാണ് അവയ്ക്ക് എത്രമാത്രം വിൽപ്പന സൃഷ്ടിക്കാൻ കഴിയും ഫിക്സഡ് അസ്സെറ്റ്സിന്റെ ഉപയോഗത്തിലെ കാര്യക്ഷമത ഇത് കാണിക്കുന്നു ഇത് വ്യക്തിഗത ആസ്തിക്കും കണക്കാക്കാം ഒന്നുകിൽ ഇത് മുഴുവൻ കമ്പനിക്കും കണക്കാക്കാം ഇത് ഒരു പ്രത്യേക പ്രോജക്റ്റിനോ പ്ലാന്റിനോ കണക്കാക്കാം ഒരു അസറ്റിനായി പോലും ഇത് കണക്കാക്കാം ആ അസറ്റിന് വരുമാനം നേടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അസറ്റ് എത്രത്തോളം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുവെന്ന് കാണുക ഒരു ലളിതമായ ഉദാഹരണം നോക്കാം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ടെന്ന് കരുതുക റിക്ഷയുടെ വില 4 ലക്ഷമാണെന്ന് പറയാം 1000 രൂപയുടെ പ്രതിദിന വിറ്റുവരവ് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയും ഫിക്സഡ് അസ്സെറ്റ് ടേൺഓവർ റേഷ്യോ എന്തായിരിക്കും ഒരു വർഷത്തിൽ 300 ദിവസത്തേക്ക് ഇത് ഉപയോഗിക്കുന്നുവെന്ന് നമുക്ക് കരുതാം അപ്പോൾ ടേൺഓവർ എന്തായിരിക്കും 1000 വച്ച് 300 ദിവസം അതായത് 3 ലക്ഷം ഫിക്സഡ് അസ്സെറ്റിന്റെ വില 4 ലക്ഷം അപ്പോൾ ഒരു വർഷം ഇത് 1ൽ താഴെ ആണ് ഈ റിക്ഷ ഒരു ദിവസം 8 മണിക്കൂറിന്റെ ഒരു ഷിഫ്റ്റ് ഓടുമ്പോൾ ആണ് 1000 രൂപ എന്ന കണക്കു എന്ന് കരുതുക അങ്ങനെ എങ്കിൽ 2 ഷിഫ്റ്റിൽ ഓടുന്നു എന്ന് കരുതുക അപ്പോൾ രാവിലെ 1000 വൈകിട്ട് 1000 അതിനാൽ ഇപ്പോൾ വിറ്റുവരവ് ഇരട്ടിയായി അനുപാതം എന്തായിരിക്കും അതിനാൽ 1000 പ്ലസ് 1000 എന്നാൽ ഒരു ദിവസത്തിൽ 2000 എന്നത് 300 ദിവസം 6 ലക്ഷം അതിനെ 4 ലക്ഷം കൊണ്ട് ഹരിക്കുന്നു മുൻപത്തെ റേഷ്യോ 0 75 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1 അതിനാൽ ആസ്തിയുടെ ഉപയോഗക്ഷമത മെച്ചപ്പെട്ടു ഒരു ഓട്ടോറിക്ഷയ്ക്കു പോലും ഇത് കണക്കാക്കാമെന്നതിന് ഞാൻ ഒരു ലളിതമായ ഉദാഹരണം നൽകുന്നു കാരണം ഒരു അസറ്റിന് വിറ്റുവരവ് സൃഷ്ടിക്കാൻ കഴിയും അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ ഇത് ചെയ്യാൻ കഴിയും ഇപ്പോൾ കമ്പനിയുടെ വിജയത്തിന് ടേൺഓവർ വളരെ പ്രധാനമാണ് കാരണം അതാണ് നിങ്ങൾക്ക് ലാഭം നൽകാൻ പോകുന്നത് അതിനാലാണ് വിൽപ്പന സൃഷ്ടിക്കുന്നതിനുള്ള ബിസിനസ്സിന്റെ കഴിവിന് ഈ അനുപാതം വളരെ പ്രധാനമായത് ഇപ്പോൾ ഫിക്സഡ് അസ്സെറ്റ്സ് പോലെ ബിസിനസ്സ് ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ എത്രത്തോളം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുവെന്നും നമുക്ക് കാണാൻ കഴിയും സെയിൽസ് വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് ഹരിച്ചാൽ മതി വർക്കിംഗ് ക്യാപിറ്റൽ എന്നാൽ കറന്റ് അസ്സെറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി ഉയർന്ന അനുപാതം നല്ലതായിരിക്കും കാരണം ഇത് കമ്പനിയുടെ കൂടുതൽ കാര്യക്ഷമത കാണിക്കുന്നു ഇപ്പോൾ ഈ അനുപാതം വളരെ രസകരമാണ് കാരണം കമ്പനിയുടെ വർക്കിങ് ക്യാപിറ്റൽ മാനേജ്മെന്റിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഈ അനുപാതം ഇപ്പോൾ ഇൻവെന്ററി ടേൺഓവർ ഡെറ്റോർസ് ടേൺഓവർ ക്രെഡിറ്റർസ് ടേൺഓവർ എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കോസ്റ്റ് ഓഫ് സെയിൽസ് സെയിൽസ് ആവറേജ് ക്ലോസിങ് ഇൻവെന്ററി ഇവിടെ ആവറേജ് ഇൻവെന്ററി ഓപ്പണിങ് സ്റ്റോക് ക്ലോസിങ് സ്റ്റോക് 2 ഇത് ഇൻവെന്ററി ടേൺഓവർനെ കുറിച്ചാണ് കമ്പനിയിൽ സ്റ്റോക്ക് മാനേജ്മെന്റ് ഡെബേറ്റേഴ്സ് മാനേജ്മെന്റ് ക്രെഡിറ്റേഴ്സ് മാനേജ്മെന്റ് എന്നിവയ്ക് വിവിധ യൂണിറ്റുകളോ ഡിപ്പാർട്ടുമെന്റുകളോ കാണും അതിനാൽ ബിസിനസിന്റെ ഓരോ ഭാഗത്തിന്റെയും കാര്യക്ഷമത നമുക്ക് അറിയാൻ കഴിയും ഇവിടെ നമ്മൾ തിരയുന്ന ആദ്യത്തേത് ഇൻവെന്ററി ടേൺഓവർ ആണ് ഒന്നുകിൽ നമുക്ക് ഇൻവെന്ററിയിൽ സെയിൽസ് നോക്കാം കുറച്ചു കൂടി അര്ഥവത്തായത് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് ഇൻവെന്ററി കോസ്റ്റ് ആയിട്ടാണല്ലോ രേഖപ്പെടുത്തുന്നത് അത് പോലെ ഡിനോമിനേറ്ററിൽ ക്ലോസിങ് ഇൻവെന്ററിക്ക് പകരം ആവറേജ് ഇൻവെന്ററി ആണെടുത്തത് കാരണം ശരാശരി ഒരു സ്റ്റോക്ക് എത്രയാണെന്നും വിൽപ്പന എത്രമാത്രം സൃഷ്ടിക്കപ്പെടുന്നുവെന്നും നമുക്കറിയാം അതിനാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ടു ആവറേജ് ഇൻവെന്ററി ആണ് നല്ലത് ഇതേ ഫോർമുല കുറച്ചുകൂടി അര്ഥവത്താക്കാൻ ദിവസങ്ങളുടെ എണ്ണത്തിലേക്ക് പരിവർത്തനം ചെയ്യാനും കഴിയും ഒരു കമ്പനിക്ക് 4 ലക്ഷത്തിന്റെ വിറ്റുവരവ് ഉണ്ടെന്നു വിചാരിക്കുക 40000 ന്റെ ഇൻവെൻററിയും ഉണ്ടെന്നു കരുതുക അപ്പോൾ റേഷ്യോ 10 ആണ് ഇൻവെന്ററി ടേൺഓവർ റേഷ്യോ ദിവസങ്ങൾക് അനുസരിച്ചും കണക്കു കൂട്ടാം നിങ്ങൾക് അത് ചെയ്യാൻ സാധിക്കുമോ സ്റ്റോക്ക് ഹോൾഡിങ് പീരീഡ് ആവറേജ് ഇൻവെന്ററി സെയിൽസ് കോസ്റ്റ ഓഫ് സെയിൽസ് x 365 12 സാധനങ്ങളുടെ എണ്ണം എത്രയായിരുന്നു 40000 വിൽപ്പന 4 ലക്ഷം ഇപ്പോൾ 4 ലക്ഷത്തിൽ 40000 4 ലക്ഷം 40000 വച്ച് ഹരിച്ചു നമുക്ക് 10 എന്ന് കിട്ടി ഇപ്പോൾ അത് 40000ത്തെ 4ലക്ഷം വച്ച് ഹരിക്കും അപ്പോൾ 10ൽ 1 അതിനെ 365 ദിവസം വച്ച് ഗുണിക്കും അപ്പോൾ 36 5 അതിനാൽ കമ്പനി ശരാശരി 36 5 ദിവസത്തെ ഇൻവെന്ററി കൈവശം വയ്ക്കുന്നു ഇപ്പോൾ നിങ്ങൾക് മനസിലായി എന്ന് കരുതുന്നു ഇപ്പോൾ അവരുടെ ഇൻവെന്ററി പോളിസിയുമായി നമുക്ക് ഇത് താരതമ്യം ചെയ്യാം ഒരു മാസത്തെ സ്റ്റോക്ക് സൂക്ഷിക്കുക എന്ന നയമുണ്ടെങ്കിൽ അതായത് സ്റ്റോക്കുകൾ 30 ദിവസമായിരിക്കണം പക്ഷേ യഥാർത്ഥത്തിൽ അവയ്ക്ക് 36 5 ദിവസമുണ്ട് അതിനാൽ അവരുടെ നയം യഥാർത്ഥവുമായി താരതമ്യപ്പെടുത്താനും അതിനനുസരിച്ച് കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കാനും കഴിയും ഇപ്പോൾ അതേ അനുപാതം കടക്കാർക്കും കണക്കാക്കാം ഡെറ്റോർസ് ടേൺ ഓവർ റേഷ്യോ ക്രെഡിറ്റ് സെയിൽസ് ആവറേജ് അക്കൌണ്ട്സ് റീസിവബിൾസ് അപ്പോൾ കടക്കാർക്ക് ഫോർമുല എന്തായിരിക്കും ഇത് സെയിൽസ് ബൈ ഡെറ്റോർസ് അല്ലെങ്കിൽ അക്കൌണ്ട്സ് റീസിവബിൾസ് ആണ് എന്നാൽ അക്കൌണ്ട്സ് റീസിവബിൾസ് ക്രെഡിറ്റ് വിൽപ്പനയ്ക്ക് മാത്രമേ ബാധകമാകൂ എന്നതിനാൽ ന്യൂമറേറ്ററിനെ ക്രെഡിറ്റ് സെയിൽസ് ആയി സ്വീകരിച്ച് ശരാശരി അക്കൌണ്ട്സ് റീസിവബിൾസ് കൊണ്ട് ഹരിക്കാം ഡെറ്റോസ് വെലോസിറ്റി ആവറേജ് ഡെറ്റോർസ് ക്രെഡിറ്റ് സെയിൽസ് X 365 12 സ്റ്റോക്ക് പോലുള്ള റേഷ്യോ നമുക്ക് ദിവസങ്ങളുടെ എണ്ണമായി പരിവർത്തനം ചെയ്യാൻ കഴിയും ഡെറ്റോർസ് ടേൺഓവർ എത്ര തവണ എന്നതിൽ നിന്ന് മാറ്റി ദിവസങ്ങളുടെ കണക്കിൽ നോക്കാം കമ്പനിയുടെ വിൽപന 10 ലക്ഷമാണെന്നും അവർക്ക് 2 ലക്ഷം റീസിവബിൾസ് ആണെന്നും കരുതുക ഇപ്പോൾ അവരുടെ അനുപാതം 10 ലക്ഷത്തിൽ 2 ലക്ഷം വരെ ആയിരിക്കും അതിനാൽ അനുപാതം എത്രയാണ് ഇപ്പോൾ ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് എത്രയാണ് 2 ലക്ഷത്തിൽ 10 അതായത് 1 ൽ 5 അതിനെ 365 ദിവസം ആയി ഗുണിക്കുന്നു അപ്പോൾ എത്ര ആണ ഇത് 70 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ 70 മുതൽ 75 ദിവസം വരെ ഏകദേശം 72 ദിവസമാണ് കടക്കാർ എന്ന് നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് സാഹചര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും 30 ദിവസത്തേക്ക് ക്രെഡിറ്റ് ഉണ്ടായിരിക്കണമെന്നാണ് അവരുടെ നയം എന്ന് കരുതുക അവർ 30 ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് 30 മുതൽ 35 ദിവസത്തിനുള്ളിൽ ശേഖരിച്ചു എന്നാൽ ഇവിടെ അവർക്ക് 72 ദിവസത്തേക്ക് കടക്കാർ ഉണ്ട് എന്നതിനർത്ഥം അവരുടെ പോളിസിയുടെ ഇരട്ടിയിലധികം വരും അതായത് അവരുടെ കടക്കാരുടെ മാനേജുമെന്റ് സംവിധാനം കാര്യക്ഷമമല്ല അതിനാൽ മാനേജർമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അനുപാതം തുടർച്ചയായി കണക്കാക്കുകയും അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും ഇത് നിക്ഷേപകർക്കും ഷെയർഹോൾഡർമാർക്കും ഓഡിറ്റർമാർക്കും ഉപയോഗപ്രദമാകുമോ കാരണം കമ്പനിയുടെ പോളിസി 30 ദിവസമാണെന്ന് ഓഡിറ്റർമാരോ ഷെയർഹോൾഡർമാരോ അറിയുമ്പോൾ ഈ റേഷ്യോ കണക്കാക്കും പക്ഷേ റേഷ്യോ 72 ദിവസമാണ് അതിന്റെ അർത്ഥമെന്താണ് കമ്പനി കാണിച്ചിരിക്കുന്ന കടക്കാർക്ക് ധാരാളം തെറ്റായ എൻട്രികളോ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു വിൻഡോ ഡ്രസ്സിംഗ് ഉണ്ടെന്നോ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കടക്കാരുടെ ഒരു ഓവർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിനാൽ കടക്കാരുടെ സ്വഭാവം കണ്ടെത്താൻ ശ്രമിക്കും ഇനിയും ഏജിങ് സ്റ്റേയ്റ്റ്മെന്റ് പോലെ കൂടുതൽ അനുപാതങ്ങൾ ഉണ്ട് അതിനാൽ കടക്കാർ എത്ര ദിവസം കമ്പനിയുമായി ഉണ്ടെന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും അത് പോലെ കൂടുതൽ സൂചനകൾ അതിൽ കൂടുതൽ അന്വേഷണം നടത്താം ഇപ്പോൾ അടുത്ത അനുപാതം ക്രെഡിറ്റർസ് ടേൺഓവർ റേഷ്യോ ആണ് ക്രെഡിറ്റർസ് ടേൺ ഓവർ റേഷ്യോ ക്രെഡിറ്റ് പർച്ചെയ്സ്ആവറേജ് അക്കൌണ്ട്സ് പെയബിൾ അതിനാൽ സാധാരണയായി നമ്മൾ ആ ഐറ്റത്തിലുള്ള സെയിൽസ് എടുക്കും എന്നാൽ ക്രെഡിറ്റർസ് പർച്ചേയ്സും ആയി ബന്ധമുള്ളതിനാൽ നമുക്ക് ക്രെഡിറ്റ് പർച്ചെയ്സെസ് എടുക്കാം അതിനാൽ ക്രെഡിറ്റ് പർച്ചെയ്സെസ് ഓൺ ആവറേജ് അക്കൌണ്ട്സ് പെയബിൾ ക്രെഡിറ്റർസ് വെലോസിറ്റി ആവറേജ് ക്രെഡിറ്റർസ് ക്രെഡിറ്റ് പാർച്ചയ്സെസ് x 365 12 അതിനാൽ ഇവിടെയും നമുക്ക് ഇത് ദിവസങ്ങളുടെ എണ്ണമായി പരിവർത്തനം ചെയ്യാനും എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചടയ്ക്കുന്നുവെന്ന് അറിയാനും കഴിയും 30 ദിവസത്തെ ക്രെഡിറ്റ് ഉണ്ടായിരിക്കുക എന്നതാണ് ഞങ്ങളുടെ സാധാരണ നയം എന്ന് കരുതുക പക്ഷേ നമ്മൾ തിരിച്ചടയ്ക്കുന്നത് 20 ദിവസത്തിനുള്ളിൽ മാത്രമാണ് നേരത്തെയുള്ള തിരിച്ചടവിനായി നമ്മൾക്കു എന്തെങ്കിലും കിഴിവ് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സമയത്തിന് മുമ്പായി നമ്മുടെ ആളുകൾ അനാവശ്യമായി പണം നൽകുന്നുണ്ടോയെന്ന് പരിശോധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇത് ദൈർഘ്യമേറിയതാണെങ്കിൽ കമ്പനിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ നിക്ഷേപകർക്ക് താൽപ്പര്യമുണ്ടാകും അവർക്ക് കൃത്യസമയത്ത് പണമില്ല അതിനാൽ അവർ തിരിച്ചടയ്ക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ വാങ്ങലുകൾ ഡമ്മിയാണോ അവർ വാങ്ങലിൽ ചില തെറ്റായ കണക്കുകൾ കാണിക്കുന്നു പക്ഷേ കൃത്യസമയത്ത് പണം നൽകുന്നില്ല അതിനാൽ ഈ അനുപാതവും പ്രധാനമാണ് അതിനാൽ നമ്മൾ ഇപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് മനസിലാക്കി തുടർന്ന് സ്ഥിരതയെക്കുറിച്ചുള്ള ഡെറ്റ് ഇക്വിറ്റി പോലുള്ള അനുപാതങ്ങളും ചർച്ചചെയ്തു ഇപ്പോൾ നമ്മൾ കാര്യക്ഷമതയെക്കുറിച്ചുള്ള അനുപാതങ്ങൾ ചർച്ചചെയ്തു അടുത്ത സെഷനിൽ അടുത്ത റൌണ്ട് അനുപാതങ്ങൾ പഠിക്കാം